നമസ്തേ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽക്കൂടി സ്വാഗതം ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് കോസ്റ്റ് അക്കൌണ്ടിംഗ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ചെലവ് കുറയ്ക്കുന്നതിൽ മൂന്ന് ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു അവിടെ നമ്മൾ ചെലവ് വിശദമായി രേഖപ്പെടുത്തും തുടർന്ന് നമ്മൾ ചെലവിന്റെ വിശകലനത്തിന് പോകും അതിനാൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് മൊത്തം ചെലവ് വിവിധ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടും ഇത് ആകെ ചെലവിന്റെ തകർച്ചക്ക് കാരണമാകുന്നു അല്ലെങ്കിൽ ആ ചെലവ് വിശകലന നിയന്ത്രിത സഹായത്തോടെ ചെലവ് സംബന്ധമായ പ്രസ്താവനകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു ഇത് ചെലവിന് നിയന്ത്രിക്കാനും കൂടാതെ തീരുമാനങ്ങൾ എടുക്കാനോ വാങ്ങാനോ ഉള്ള പല തീരുമാനങ്ങളിലും എത്താൻ സഹായിക്കും ഇത് വിശാലാടിസ്ഥാനത്തിൽ കോസ്റ്റ് അക്കൌണ്ടിംഗ് ആണ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഉപയോഗത്തിനായി തീരുമാനങ്ങളെടുക്കുന്ന ഭാഗം അതുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് എന്നറിയപ്പെടുന്ന ആശയം നമ്മൾക്ക് ലഭിച്ചത് ഈ കോഴ്സിൽ നമ്മളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗാണ് തീരുമാനങ്ങളെടുക്കാൻ സഹായിക്കുന്ന പ്രധാന സാങ്കേതികവിദ്യകളെ കുറിച്ചുമാണ് എന്താണ് ചെലവ് എന്നും ചെലവിലെ വർഗ്ഗീകരണത്തെ കുറിച്ചും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു അതിനാൽ നമുക്ക് ചിലവിൽ നിന്ന് ആരംഭിക്കാം എല്ലാവർക്കും എപ്പോഴും ചെലവുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഒരു നിർവചനത്തിന്റെ ആവശ്യമില്ല ചെയ്യുന്ന എല്ലാപ്രവർത്തികൾക്കും നമ്മൾ പണം നൽകേണ്ടിവരും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സമയം ത്യജിക്കേണ്ടിവരുന്നു അല്ലെങ്കിൽ അവസരങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു ഇത് ഒരുമിച്ച് ചേർക്കുകയും ഇതിനെ ചെലവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു വർഗ്ഗീകരണം വളരെ പ്രധാനമാണ് കാരണം അത് ചെലവ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ് എന്നിവയ്ക്കുള്ളിലെ വിവിധ ആശയങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു കൂടാതെ ചെലവ് നിയന്ത്രിക്കുന്നതിനും വർഗ്ഗീകരിക്കുന്നതിനുമായി നമ്മൾ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ തീരുമാനങ്ങൾ എടുക്കുന്നതിനു ആവശ്യമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നു നമ്മൾ ഇതിനകം ചർച്ച ചെയ്ത ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ വർഗ്ഗീകരണം ചെലവിന്റെ പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു ആദ്യത്തേത് സാമഗ്രികളും അടുത്തത് തൊഴിലാളികളും മൂന്നാമത് ചെലവും ആണ് ഇതാണ് ഏറ്റവും പഴയ രീതിയിലുള്ള വർഗ്ഗീകരണം അതിനാൽ എല്ലാ മൂർത്തമായ ചെലവ് ഇനങ്ങളും സാമഗ്രികളുടെ ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാനുഷിക ചെലവുകൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ സേവനങ്ങളുടെ വാങ്ങലും ചെലവിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇത് വളരെ അടിസ്ഥാനപരമായ വർഗ്ഗീകരണത്തിന്റെ വഴിയാണ് അവിടെ നിന്ന് ക്രമാനുഗതമായ മാറ്റങ്ങൾ സംഭവിച്ച് പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഗീകരണത്തിലേക്ക് പോകുന്നു പ്രധാന വ്യവസായ പ്രവർത്തനങ്ങളായ ഉല്പാദനം ഭരണം വില്പന വിതരണം ആർ ഡി R D തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി വ്യവസായത്തെ ഘടകങ്ങളായി വിഭജിച്ചിരിക്കുന്നു അതുപോലെ ചെലവിനെയും പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി ഉല്പാദനച്ചെലവ് ഉൽപാദനം നിയന്ത്രിക്കുന്ന ആൾക്കുള്ള ചെലവ് വിപണന ചെലവ് എന്നിവയെ അടിസ്ഥാനമാക്കി വിഭജിച്ചിരിക്കുന്നു പിന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും ചെലവ് വർഗ്ഗീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രത്യക്ഷമായ ചെലവ് എന്താണ് ചെലവ് നിയന്ത്രണത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് ഒരു പ്രത്യേക ചെലവ് കേന്ദ്രത്തിനോ ഉൽപ്പന്നത്തിനോ മേൽ ചുമത്താനാവുന്നവയാണ് പ്രത്യക്ഷ ചെലവുകൾ നിങ്ങൾ ഇത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഈ ഉദാഹരണമെങ്കിലും മനസ്സിൽ വയ്ക്കുക പഴച്ചാർ ഉൽപ്പാദനത്തിന് എടുക്കുന്ന പഴത്തിന്റെ വില നമുക്ക് തിരിച്ചറിയാനാകും മാമ്പഴം പോലുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയാണ് മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ വാങ്ങുന്ന മാമ്പഴം നേരിട്ട് മാമ്പഴ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഈടാക്കും എന്നാൽ എല്ലാ വിലയും നേരിട്ട് ഈടാക്കാൻ കഴിയില്ല നേരിട്ട് ഈടാക്കാൻ കഴിയാത്ത ബാക്കി ചെലവ് പരോക്ഷ വിലയായി കണക്കാക്കുന്നു നമുക്ക് ഒരു പഴച്ചാറ് നിർമ്മാണ സംഘം ഉണ്ടെന്ന് കരുതുക നമ്മൾക്ക് നാലു തരം പഴങ്ങൾ ലഭിക്കുകയും നമ്മൾ നാലുതരം പഴച്ചാർ ഉണ്ടാക്കുകയും ചെയ്തു അതിനാൽ വാങ്ങുന്ന ഏതൊരു പഴത്തിനും ഞങ്ങൾ ഈ 4 ഘടകങ്ങളിൽ നിന്ന് ഈടാക്കുന്നു അത് മറ്റുള്ള ചെലവിൽ നിന്ന് വിഭിന്നമായി പരോക്ഷ സ്വഭാവമുള്ള ഒന്നാണ് ഈ 4 യൂണിറ്റുകളുള്ള നമ്മുടെ വ്യവസായ ശാലയ്ക്ക് സാധാരണ വാടക നൽകുന്നുവെന്ന് കരുതുക വാടക ഒരു യൂണിറ്റിന് മാത്രമായിരിക്കില്ല നാല് തരം പഴച്ചാർ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുടെയും ആകെ വാടകയാണിത് അതിനാൽ ഇത് പരോക്ഷമായ ചിലവാകും അതേ രീതിയിൽ സുരക്ഷാ ഇൻഷുറൻസ് നവീകരണ പ്രവർത്തനങ്ങൾ ഇവ പരോക്ഷ ചെലവിന്റെ സാധാരണ ഉദാഹരണങ്ങളാണ് മനുഷ്യ ശേഷിയുടെ ചെലവിന് പറ്റി എന്താണ് പറയുവാനുള്ളത് പ്രത്യക്ഷമാണോ പരോക്ഷമാണോ ഒരു പ്രത്യേക പഴച്ചാർ ഉണ്ടാക്കുന്ന യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഉണ്ടെന്ന് കരുതുക മാമ്പഴ യൂണിറ്റിൽ മാത്രം ജോലി ചെയ്യുന്ന 15 ജീവനക്കാർ ഉണ്ടെന്ന് പറയാം അവരുടെ ചെലവ് ഇത് മാമ്പഴച്ചാർ നിർമ്മാണത്തിൽ നിന്ന് പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയും അത് പ്രത്യക്ഷ ചെലവായി പരിഗണിക്കപ്പെടും എന്നാൽ 4 യൂണിറ്റുകളുടെയും മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസർ മാരുടെ ചെലവ് പരോക്ഷ ചെലവായിരിക്കും പ്രൊഡക്ഷൻ മാനേജറുടെത് പരോക്ഷമായ ചിലവാണ് സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സഹായിയുടെ ചെലവ് ഏതെങ്കിലും ഒരു ഘടകമായി തിരിച്ചറിയാൻ കഴിയില്ല അപ്പോൾ അത് പരോക്ഷമായ ചെലവായിരിക്കും അത് പോലെ അത് സാമഗ്രികളോ തൊഴിലാളികളോ അധിക ചെലവോ ആകട്ടെ ആ ചെലവുകൾ ഇപ്പോൾ നേരിട്ടുള്ളതനുസരിച്ച് പുനർവർഗ്ഗീകരിക്കപ്പെടുന്നു അവ പ്രത്യേകമായി തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അവയെ ഒരു കോസ്റ്റ് സെന്ററുമായോ ഉൽപ്പന്നവുമായോ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ അതിനെ നേരിട്ടുള്ള ചെലവ് എന്ന് വിളിക്കും കൂടാതെ വാടക അല്ലെങ്കിൽ സുരക്ഷ പോലെ വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയാത്തവ പരോക്ഷ ചെലവായി കണക്കാക്കും ഇപ്പോൾ ഈ പരോക്ഷ ചെലവുകളും ഈടാക്കേണ്ടതുണ്ട് നേരിട്ടുള്ള ചെലവുകൾ നമുക്ക് എളുപ്പത്തിൽ ഈടാക്കാം എന്നാൽ പരോക്ഷമായ ചിലവുകൾ നേരിട്ട് ഈടാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സാധാരണയായി യൂണിറ്റിന് ഒരു നിരക്ക് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു സമ്മിശ്ര നിരക്ക് കണക്കാക്കുന്നത് സാങ്കേതികമായി അവയെ നമ്മൾ ആഗിരണ നിരക്ക് എന്ന് വിളിക്കുന്നു അതിനാൽ നമ്മൾ പരോക്ഷ ചെലവുകൾ മൊത്തമായി എടുക്കുന്നു മണിക്കൂറുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മണിക്കൂർ നിരക്ക് ലഭിക്കും എന്നാൽ ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു രീതിയാണ് പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള കോസ്റ്റിങ് പോലുള്ള മുൻകൂർ രീതികൾ ഉണ്ട് ഉൽപ്പന്നങ്ങളിലേക്കോ ചെലവ് കേന്ദ്രങ്ങളിലേക്കോ പരോക്ഷ ചെലവുകൾ ഈടാക്കുന്നത് ഇങ്ങനെയാണ് വർഗ്ഗീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമുണ്ട് അത് നിയന്ത്രണക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള വർഗ്ഗീകരണം ആണ് ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രവർത്തനത്താൽ സ്വാധീനിക്കാവുന്ന ചിലവുകളാണ് നിയന്ത്രിക്കാവുന്ന ചിലവ് അതിനാൽ നിങ്ങൾക്ക് ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ മാനേജരെ കിട്ടിയാൽ അയാൾക്ക് പ്രത്യേക വിഭാഗത്തിലുള്ള മാമ്പഴങ്ങൾ വാങ്ങാനോ വാങ്ങാതിരിക്കാനോ ചില ദൈനംദിന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനോ ഉള്ള അധികാരം ഉണ്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ തീരുമാനങ്ങൾക്ക് കാരണമാകുന്ന ചെലവുകളാണ് നിയന്ത്രിക്കാവുന്ന ചിലവ് വാടക ഒരു നിയന്ത്രണ ചെലവ് ആയിരിക്കുമോ മിക്കവാറും അല്ല വാടകയുമായി ബന്ധപ്പെട്ട തീരുമാനം ഉയർന്ന തലത്തിൽ ഉള്ളവരാണ് എടുക്കുന്നത് കൂടാതെ കൂലി നിരക്ക് സംബന്ധിച്ച തീരുമാനങ്ങളും എടുക്കുന്നത് അവരായിരിക്കും അപ്പോൾ ആ ചെലവുകൾ നിയന്ത്രണാതീതമായ ചിലവായി കണക്കാക്കും ഈ പ്രത്യേക വർഗ്ഗീകരണം വളരെ കൃത്യമല്ല പ്രവർത്തനത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും ഒരു പ്രത്യേക സംഘത്തിന്റെ സൂപ്പർവൈസർക്ക് അവന്റെ അല്ലെങ്കിൽ അവളുടെ അധികാരത്തിനുള്ളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം വ്യവസായ സ്ഥാപനത്തിന്റെ മാനേജർക്ക് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം ഒരു ജനറൽ മാനേജർക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ അധികാരമുണ്ട് അതിനാൽ മാനേജ്മെന്റിന്റെ ഓരോ തലത്തിലും നിയന്ത്രിക്കാവുന്ന ചെലവ് മാറുന്നു ഈ വർഗ്ഗീകരണത്തിന്റെ പ്രയോജനം എന്തെന്നാൽ നമ്മൾക്ക് നിയന്ത്രിക്കാവുന്ന ചെലവ് വേർതിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്കുള്ളിൽ നിയന്ത്രിക്കാവുന്ന ചെലവിന് മാത്രമേ ആ വ്യക്തിയെ ഉത്തരവാദിയാക്കാൻ കഴിയൂ എന്നതാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എനിക്ക് കൂടുതൽ അധികാരമില്ലെന്ന് ഓരോ മാനേജരും പറയും മുതിർന്നവർ തീരുമാനമെടുക്കുന്നു മറ്റ് വകുപ്പുകൾ കൂടുതൽ ചെലവ് വഹിക്കുന്നു അതിനാൽ എനിക്ക് എന്റെ ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാൽ ഈ ചെലവുകളിൽ ഭൂരിഭാഗവും എന്റെ നിയന്ത്രണത്തിലല്ല എന്നു പറയാൻ സാധിക്കും അതിനാൽ നിയന്ത്രണത്തിന്റെ തിരിച്ചറിയൽ ബുദ്ധിമുട്ടായി മാറുന്നു അതുകൊണ്ടാണ് നിയന്ത്രണ വർഗ്ഗീകരണത്തിന് കീഴിൽ ആ വകുപ്പുമായോ യൂണിറ്റുമായോ ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും രണ്ട് തരങ്ങളായി തിരിച്ചിരിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കാവുന്നവ മറ്റൊന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തവ കൂടാതെ നിയന്ത്രിത ചെലവുകൾക്ക് മാത്രം ഉത്തരവാദിയായ ആ പ്രത്യേക വ്യക്തിയെ പിടിച്ചുനിർത്താൻ നമ്മൾ ശ്രമിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ ചെലവ് നിയന്ത്രണ ആവശ്യങ്ങൾക്ക് ഈ വിദ്യ വളരെ ഉപയോഗപ്രദമാണ് അടുത്തത് സാധാരണ നിലയിലുള്ള വർഗ്ഗീകരണമാണ് ഇപ്പോൾ ഒരു നിശ്ചിത തലത്തിലുള്ള ഫലത്തിനായി ചില ചെലവുകൾ സാധാരണമായി കണക്കാക്കുന്നു പക്ഷേ ചെലവ് ആ നില കവിഞ്ഞാൽ അത് അസാധാരണമായി കണക്കാക്കും ഉദാഹരണത്തിന് നിങ്ങൾ പെട്രോൾ പമ്പിൽ പോയാൽ അവർ പെട്രോളോ ഡീസലോ ആണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇനങ്ങൾ ബാഷ്പീകരിക്കപ്പെടാവുന്നതാണ് അതിനാൽ ഒരു ദിവസം 50000 ലിറ്റർ പെട്രോൾ വിറ്റുവെന്ന് കരുതുക അതിൽ 0 3 ശതമാനം ബാഷ്പീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് ഒരു സാധാരണ ബാഷ്പീകരണമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ പെട്രോൾ വിൽപനയുടെ ചുമതലയുള്ളവർ ആരായാലും പെട്രോളിന്റെ നഷ്ടം 0 3 ശതമാനത്തിൽ ഒതുങ്ങിയാൽ ആരും ചോദിക്കില്ല പക്ഷേ യഥാർത്ഥ നഷ്ടം അതിലും കവിഞ്ഞാൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്യും എന്തെങ്കിലും ബിൽ ചെയ്യാത്ത വിൽപ്പന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അതിനാൽ ഏതെങ്കിലും അധിക നഷ്ടം ഉണ്ടായാൽ അസാധാരണമായ നഷ്ടമായി കണക്കാക്കും സംഭരണശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ് അതിനാൽ വ്യത്യസ്ത തരത്തിലുള്ള നഷ്ടങ്ങൾക്ക് അവയെ സാധാരണമായും അസാധാരണമായും വിഭജിക്കുകയും സാധാരണ നഷ്ടങ്ങൾ വ്യത്യസ്തമായി പരിഗണിക്കുകയും ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്ന നല്ല സംഘങ്ങളിലേക്കാണ് അവ ഈടാക്കുന്നത് കാരണം അത് സംഭവിക്കേണ്ടതാണ് അതേസമയം സാധാരണ ശതമാനത്തേക്കാൾ അസാധാരണമായ നഷ്ടം ഉണ്ടായാൽ നമ്മൾ അത് ആ പ്രത്യേക വകുപ്പിൽ നിന്നോ മാനേജരിൽ നിന്നോ ഈടാക്കും നമ്മൾക്ക് അത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ കഴിയില്ല അടുത്ത തരം വർഗ്ഗീകരണം പരിവർത്തനശീലത്തെ അനുസരിച്ചാണ് ഇവിടെ വർഗ്ഗീകരണത്തിന്റെ അടിസ്ഥാനം അൽപ്പം വ്യത്യസ്തമാണ് മുമ്പ് നമ്മൾ പഠിച്ച വർഗ്ഗീകരണങ്ങൾ പ്രധാനമായും ചെലവ് നിയന്ത്രണ ആവശ്യങ്ങൾക്കായാണ് പരിവർത്തനം അനുസരിച്ചുള്ള വർഗ്ഗീകരണം പ്രധാനമായും തീരുമാനമെടുക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമാണ് അപ്പോൾ ഈ ചെലവ് നിങ്ങൾ എങ്ങനെ തരംതിരിക്കും ചെലവിനെ ഫിക്സഡ് വേരിയബിൾ എന്നും സെമി വേരിയബിൾ എന്നും തരംതിരിച്ചിരിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ മാറുന്ന അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്ന ചെലവുകളാണ് വേരിയബിൾ ചെലവുകൾ ഇവിടെ വ്യത്യസ്തമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് തിരികെ ലഭിക്കുന്ന ഉത്പന്നത്തിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള വ്യത്യാസമാണ് കൂടുതൽ ഉപയോഗമോ ഉൽപാദനമോ ഉണ്ടെങ്കിൽ അതിന്റെ ചിലവ് ഒരു രേഖീയ അനുപാതത്തിൽ വർദ്ധിക്കുന്നു അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നു നേരിട്ടുള്ള കൂലി നേരിട്ടുള്ള സാമഗ്രികൾ എന്നിവയാണ് ഉദാഹരണങ്ങൾ ഒരു വാഹനം പ്രവർത്തിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ കിലോമീറ്ററുകളുടെ ഉപയോഗം അനുസരിച്ച് പെട്രോൾ വില കൂടുകയോ ഇന്ധനവില കൂടുകയോ ചെയ്യും അതിനാൽ അത് ഒരു വേരിയബിൾ ചെലവായി കണക്കാക്കും ഇതിനു വിരുദ്ധമായി സ്ഥിരമായ ചെലവുകൾ എന്നറിയപ്പെടുന്ന ചില ചെലവുകൾ ഉണ്ട് അവ സമയവുമായി ബന്ധപ്പെട്ടതാണ് അവ വ്യാപ്തിക്കോ പ്രവർത്തന നിലവാരത്തിനോ അനുസൃതമായി മാറുകയില്ല ഉദാഹരണത്തിന് നമ്മൾ കാറിന്റെ ചിലവ് കൂട്ടി എടുക്കുകയാണെങ്കിൽ കാറ് പ്രവർത്തിക്കുമ്പോൾ ഇന്ധനച്ചെലവ് മാറും അത് ഒരു വേരിയബിൾ ചെലവാണ് എന്നാൽ ഇൻഷുറൻസ് ചെലവ് മിക്കവാറും മാറാൻ പോകുന്നില്ല അല്ലെങ്കിൽ കാറിന്റെ മൂല്യത്തകർച്ചയ്ക്ക് മാറ്റം വരുത്താൻ ഇതിനു സാധിക്കുന്നില്ല അതിനാൽ അതൊരു നിശ്ചിത ചെലവായി തുടരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റു ഉദാഹരണങ്ങൾ വാടകയോ വസ്തുവോ നികുതിയോ ആണ് ഇവയും നിശ്ചിത ചെലവിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ പട്ടിക സംഗ്രഹ വർഗ്ഗീകരണം നൽകുന്നു പ്രവർത്തന നിലവാരത്തിനനുസരിച്ച് മൊത്തം മാറുന്ന വേരിയബിൾ ചെലവ് നമ്മൾ ഇത് ഓരോ ഘടകത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ഓരോ ഘടകവും സ്ഥിരമായി തുടരും നിശ്ചിത ചെലവുകളെ സംബന്ധിച്ചിടത്തോളം അവ മൊത്തത്തിൽ സ്ഥിരമായിരിക്കും എന്നാൽ ഘടക അടിസ്ഥാനത്തിലാണെങ്കിൽ ഓരോ അധിക ഘടകങ്ങൾക്കും കുറവ് സംഭവിക്കും കാരണം അവ സാധാരണമായതിനാൽ കൂടുതൽ ഘടകങ്ങൾ ലഭിക്കുന്നതിനായാണ് ഈ കുറയ്ക്കൽ ഇപ്പോൾ അതിനിടയിൽ ചില ചെലവുകളുണ്ട് അവയ്ക്ക് മാറ്റം സംഭവിക്കാവുന്ന ചില ഘടകങ്ങൾ ഉണ്ട് കൂടാതെ നിശ്ചയിക്കപ്പെട്ട ചില ഘടകങ്ങളുമുണ്ട് അതിനെ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഉദാഹരണം ടെലിഫോൺ ബിൽ ഇക്കാലത്ത് മിക്കവരും ഇത്തരത്തിലുള്ള ടെലിഫോണുകൾ കണ്ടിട്ടുണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു ഇവ പഴയ ഫിക്സഡ് ലൈൻ ടെലിഫോണുകളാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലെയല്ല അവർ സ്ഥിരമായ വാടകയാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ ഓരോ വിളിക്കും അധിക പണം നൽകുന്നത് കൊണ്ടാണ് ഇതൊരു വേരിയബിൾ ചെലവാകുന്നത് നിശ്ചിത കോൾ നിരക്കുകളുടെ വാടക ഭാഗവും വ്യത്യസ്തമാണ് ഇന്നും മൊബൈൽ ഫോണുകൾക്ക് പോലും സാധാരണയായി ഒരു നിശ്ചിത നിരക്കും അധിക തുകയും ഉണ്ടാകാം അത് ഓരോ വിളിക്കും അനുസരിച്ച് വർദ്ധിക്കുകയാണെങ്കിൽ അത് ഒരു വേരിയബിൾ കോസ്റ്റായി മാറുന്നു നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളിംഗ് പ്ലാൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ നിരക്ക് 0 ആണ് അതുപോലെ വൈദ്യുതിക്കോ അറ്റകുറ്റപ്പണിക്കോ ഒരു നിശ്ചിത ഘടകവും വ്യത്യസ്ത ഘടകവും ഉണ്ടായിരിക്കും അതിനാൽ മൊത്തം ചെലവ് വ്യത്യാസപ്പെടും പക്ഷേ നേരിട്ടുള്ള അനുപാതത്തിലല്ല എന്ന് മാത്രം അതിനാൽ ഇത് ഒരു സെമി വേരിയബിൾ ചെലവായി കണക്കാക്കപ്പെടുന്നു 2 മാസത്തേക്കുള്ള ഒരു ഉദാഹരണം ഇതാ നമുക്ക് ജൂലായ് ഓഗസ്റ്റ് മാസങ്ങളിൽ ആദ്യ മാസത്തെ യൂണിറ്റ് 1000 ആണെന്ന് പറയാം അടുത്ത മാസം ഇത് 2000 ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെലവ് നൽകിയിരിക്കുന്നത് കാണാം അവയെ നിങ്ങൾ ഫിക്സഡ് വേരിയബിൾ അല്ലെങ്കിൽ സെമി വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ആദ്യ ഇനം നേരിട്ടുള്ള സാമഗ്രികളാണ് അത് ഏത് വിഭാഗത്തിൽ പെടും സാമഗ്രികളുടെ വില 50000 നിന്ന് 100000 ആയി ഉയർന്നത് നിങ്ങൾക്ക് കാണാനാകും അത് ഇരട്ടിയായി യൂണിറ്റുകളുടെ എണ്ണവും ചെലവും ഇരട്ടിയായി അതായത് ഇത് വേരിയബിൾ കോസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ് നേരിട്ടുള്ള തൊഴിൽ വീണ്ടും അതേ 28 56 ആയതിനാൽ അത് ഇരട്ടിയായി വർധിച്ചു ഇത് ഒരു വേരിയബിൾ ചെലവാണ് വ്യവസായ സ്ഥാപനത്തിന്റെ വാടകയിൽ മാറ്റമില്ല അതിനാൽ ഇത് ഒരു ഫിക്സഡ് കോസ്റ്റ് പവർ ആണ് നേരിട്ടുള്ള അനുപാതത്തിൽ അല്ലാതെ 35000 50000 ആയി മാറി ഇത് 35 ഉം 70 ഉം ആയി മാറിയിട്ടില്ല അതിനാൽ ഇത് വേരിയബിളല്ല ഇത് 17ഉം 26ഉം ആയതിനാൽ ഒരു സെമി വേരിയബിൾ മെയിന്റനൻസും സെമി വേരിയബിൾ ചെലവുമാണ് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ടോ എന്നാൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ വർഗ്ഗീകരണം വളരെ ഉപയോഗപ്രദമാകും കൂടാതെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഈ വർഗ്ഗീകരണത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പ്രസക്തി അനുസരിച്ച് അടുത്ത വർഗ്ഗീകരണത്തിലേക്ക് പോകുന്നു ബദലുകൾക്കിടയിൽ വ്യത്യാസമുള്ള ഭാവി ചെലവുകളാണ് പ്രസക്തമായ ചെലവുകൾ അതിനാൽ നിങ്ങൾ ഒരു പ്രത്യേക തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ ചെലവിൽ മാറ്റം വരുത്തുന്നു ആ ചെലവുകൾ പ്രസക്തമെന്ന് വിളിക്കപ്പെടും അതേസമയം മുങ്ങിയ ചെലവുകൾ മുൻകാല ചെലവുകളാണ് തീരുമാനങ്ങൾ കണക്കിലെടുക്കാതെ അവയെ മാറ്റാൻ കഴിയില്ല അതിനാൽ ഞങ്ങൾ അവയെ സങ്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നു ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഒരു ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തു എന്ന് കരുതുക ഉൽപ്പന്നത്തിന്റെ വികസനത്തിനായി നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ഗവേഷണ വികസന ചെലവ് ഉണ്ടായി ഇപ്പോൾ നമ്മൾ ഉൽപ്പന്നം സമാരംഭിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം നമ്മൾ ഉൽപ്പന്നം പുറത്തിറക്കുകയാണെങ്കിൽ നിർമ്മാണച്ചെലവ് 25 ലക്ഷം വരും 30 ലക്ഷം വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ആർ ഡി R D ചെലവ് 10 ലക്ഷം നിർമ്മാണച്ചെലവ് 25 ലക്ഷം വരുമാനം 30 ലക്ഷം എന്നിങ്ങനെയുള്ള കണക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കും ഇപ്പോൾ നമ്മൾ ഉൽപ്പന്നം പുറത്തിറക്കുകയാണെങ്കിൽ പ്രസക്തമായ ചെലവുകൾ എന്താണ് മുങ്ങിയ ചെലവ് എന്താണ് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ നമുക്ക് ഉൽപ്പന്നം പുറത്തിറക്കണം കാരണം പ്രസക്തമായ ചിലവ് 25 ലക്ഷം തന്നെയാണ് നിർമ്മാണച്ചെലവും വിൽപനയിലൂടെ കിട്ടാൻ പോകുന്നത് 30 ലക്ഷം അതിനർത്ഥം നമ്മൾ 5 ലക്ഷം ലാഭം ഉണ്ടാക്കുന്നു ആർ ഡി R D എന്നിവയിൽ ഞങ്ങൾ ചെലവഴിച്ച 10 ലക്ഷം മുങ്ങിത്താഴുന്നു എന്നിരുന്നാലും നമ്മൾ ഉൽപ്പന്നം പുറത്തിറക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഇതിനകം 10 ലക്ഷം നഷ്ടമുണ്ടാകുന്നു ഈ തീരുമാനത്തിലൂടെ നമുക്ക് അത് മാറ്റാനോ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല അതിനാലാണ് ഇത് മുങ്ങിയ ചിലവ് എന്നറിയപ്പെടുന്നത് പുറത്തിറക്കണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കാത്തത് കാരണം ആർ ഡി R D ഒരു മുങ്ങിപ്പോയ ചെലവാകുന്നു ഉൽപ്പാദനച്ചെലവ് നമ്മൾ വഹിക്കാൻ പോകുന്നതോ അല്ലാത്തതോ ആയ ചെലവാണ് അതുകൊണ്ടാണ് പുറത്തിറക്കുന്ന കാര്യത്തിൽ നിർമ്മാണച്ചെലവ് പ്രസക്തമായ ചെലവായി മാറുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രസക്തമായ ചെലവ് മാത്രം നോക്കണം മുങ്ങിയ ചെലവുകൾ നോക്കരുത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ വർഗ്ഗീകരണം തീരുമാനമെടുക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണ് എന്നാൽ നിയന്ത്രണ ആവശ്യങ്ങൾക്ക് അത്രയേറെ ഉപയോഗപ്രദമല്ല അവ വ്യത്യസ്ത വർഗ്ഗീകരണങ്ങളാണ് പ്രത്യക്ഷമോ പരോക്ഷമായതോ നിയന്ത്രിക്കാവുന്നതോ അല്ലാത്തതോ ആയ വർഗ്ഗീകരണങ്ങളാണ് ഇത് മുഖ്യമായും തീരുമാനമെടുക്കുന്നതിനുള്ളതാണ് ഈ ചെലവിന്റെ മറ്റൊരു വകഭേദമുണ്ട് അത് ഡിഫറൻഷ്യൽ കോസ്റ്റുകൾ എന്നറിയപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് 2 ഇതരമാർഗങ്ങളുണ്ടെങ്കിൽ ആ ബദലിലൂടെ എന്തെങ്കിലും അധിക ചിലവ് വരുത്താൻ പോകുകയാണെങ്കിൽ അതിനെ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് വിളിക്കാം നമ്മൾ റൂട്ട് a 100 രൂപയെന്നും റൂട്ട് ബി 120 രൂപയെന്നും എടുത്താൽ രണ്ട് ഇതരമാർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 20 രൂപയാണ് അത് ഒരു ഡിഫറൻഷ്യൽ ചെലവാണ് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉപയോഗപ്രദമാണ് ഇനി അവസര ചെലവ് അവസരച്ചെലവ് നിങ്ങൾ പണമായി നൽകുന്ന ഒന്നല്ല അതിനാലാണ് പലരും ആശയക്കുഴപ്പത്തിലാകുന്നത് ഇത് നഷ്ടപ്പെട്ട ആനുകൂല്യത്തിന്റെ വിലയാണ് അതിനാൽ എന്തെങ്കിലും ദൌർലഭ്യം വരുകയാണെങ്കിൽ നമ്മൾ ബദൽ മാർഗം എ തിരഞ്ഞെടുക്കും ബദൽ ബി യിലേക്ക് പോകാനാവില്ല അതിനാൽ ബി യിൽ നിന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെടുന്നു അത് അവസര ചെലവാണ് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ കോഴ്സിന്റെ ചിത്രീകരണം കാണുകയാണെങ്കിൽ അത് ബദൽ എ ആണ് ബദൽ ബി ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ പണ്ഡിത വിദ്യാർത്ഥികളാണ് അതിനാൽ ഈ വിരസമായ ചിത്രീകരണം നിങ്ങൾ കാണാൻ തിരഞ്ഞെടുത്തു നിങ്ങൾ ഒരു സിനിമ കാണുന്നത് ഉപേക്ഷിച്ചു ഈ ചിത്രീകരണം കാണുന്നത് ഒരു അവസര ചെലവാണ് നിങ്ങൾ പണമായി ഒന്നും നൽകുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ സമയം പരിമിതമാണ് ഇതേസമയം നിങ്ങൾക്ക് മറ്റ് വീഡിയോകൾ കാണാമായിരുന്നു നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നു ഇത് ഒരു അവസര ചെലവാണ് നിങ്ങൾ ഒരു കോളേജിൽ ചേരുകയും 50000 ഫീസ് നൽകുകയും ചെയ്യുന്നു എന്ന് കരുതുക അത് എംബിഎ കോളേജാണെങ്കിൽ 5 ലക്ഷം രൂപയായിരിക്കാം നിങ്ങൾ 2 വർഷവും 5 ലക്ഷം രൂപയാണ് ഫീസ് അടക്കുന്നത് രണ്ട് വർഷത്തെ എംബിഎ കോഴ്സാണിത് പണത്തിന്റെ അടിസ്ഥാനത്തിൽ എംബിഎ ചെയ്യുന്നതിനുള്ള ചെലവ് എത്രയാണ് 10 ലക്ഷം രൂപ കൂടാതെ 2 ലക്ഷത്തിന്റെ മറ്റ് ചില ചെലവുകൾ മൊത്തം 12 ലക്ഷം പക്ഷേ നിങ്ങൾ ഒരു ജോലി ചെയ്യുകയും 10 ലക്ഷം പാക്കേജ് ലഭിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അവസരച്ചെലവുണ്ട് തുടർന്നുള്ള 2 വർഷം 10 ലക്ഷം നിങ്ങൾക്ക് നഷ്ടപ്പെടും അതിനാൽ നിങ്ങൾക്ക് 20 ലക്ഷം നഷ്ടപ്പെടുന്നു അതാണ് അവസര ചെലവുകൾ അതിനാൽ എംബിഎ ചെയ്യുന്നതിനുള്ള ചെലവ് 20 ലക്ഷം അവസര ചെലവും 12 ലക്ഷം പണച്ചെലവുമാണ് എംബിഎ ചെയ്യാനുള്ള ആകെ ചെലവ് 32 ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ എംബിഎ ചെയ്യാനുള്ള തീരുമാനം എടുക്കണം അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഒരു പകുതി സമയ എംബിഎയ്ക്ക്പോകാം അവിടെ നിങ്ങളുടെ ഫീസ് ഒരു ചെലവാണ് എന്നാൽ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ ശമ്പളമോ നിങ്ങൾക്ക് നഷ്ടമാകുന്നില്ല അതിനാൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യം പരിഗണിക്കേണ്ടതുണ്ട് അതിനെ അവസര ചെലവ് എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതാ ഒരു ഉദാഹരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് അതിന് ശമ്പളമോ വാടകയോ ഒന്നും തന്നെ ചെലവാകുന്നില്ല അതിനാൽ വാടകച്ചെലവ് ലാഭിച്ചു അത് നിങ്ങൾക്ക് ലഭിച്ച അവസര ചെലവായി മാറുന്നു ഇപ്പോൾ അടുത്തത് മാർജിനൽ കോസ്റ്റാണ് ഒരു അധിക യൂണിറ്റ് നിർമ്മിക്കുന്നതിനുള്ള ചെലവാണിത് വളരെയേറെ ഉപയോഗപ്രദമായ മാർജിനൽ കോസ്റ്റിംങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 100 യൂണിറ്റിന് 1000 രൂപയാണെങ്കിൽ നിങ്ങൾ 100 യൂണിറ്റും കൂടെ ഒരു യൂണിറ്റും ഉണ്ടാക്കുമ്പോൾ ചെലവ് 1005 ആണെങ്കിൽ 1 യൂണിറ്റിന് അധിക ചിലവ് 5 രൂപയാണ് അതായത് ഒരു യൂണിറ്റിന് നാമമാത്രമായ ചിലവു മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇവിടെ ഒരു ശരാശരി ചെലവ് ഉണ്ടാകുന്നു ആകെ ചെലവിനെ യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി ചെലവ് ലഭിക്കും നിയന്ത്രണ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണ് ഇപ്പോൾ അവസാന വർഗ്ഗീകരണം ഉൽപ്പന്ന വിലയും കാലയളവിലെ ചെലവുകളും ആണ് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള മൊത്തം ചെലവ് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ അത് ഒരു ഉൽപ്പന്ന വിലയായി മാറുന്നു അത് കണ്ടെത്താവുന്നതാണ് അതിനു നമുക്ക് ചരക്കു പട്ടികയിലേക്ക് ചേർക്കാൻ കഴിയും അതിന് കാലയളവ് ചെലവുണ്ട് ഇവ പ്രത്യേക കാലയളവിലേക്കാണ് ഈടാക്കുന്നത് അല്ലാതെ യൂണിറ്റിന്റെ എണ്ണത്തിനനുസരിച്ചല്ല അതുകൊണ്ട് അവ കാലയളവിലേക്കുള്ള ചെലവ് ആയാണ് കണക്കാക്കുന്നത് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അതാണ് മെറ്റീരിയൽ ലേബർ ഓവർഹെഡ്കൾ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വർഗ്ഗീകരണങ്ങൾ നമ്മൾ കണ്ടു തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചിലവ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് തുടങ്ങിയവയും നമ്മൾ കണ്ടു ഈ വർഗ്ഗീകരണങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് വരും ഭാഗങ്ങളിൽ ഈ വർഗ്ഗീകരണങ്ങൾ ഉപയോഗിച്ച് ചില പ്രശ്നങ്ങളും കേസുകളും നമുക്ക് പരിഹരിക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം നന്ദി നമസ്കാരം